PML സിദ്ധാന്തം സംഗ്രഹം ഇപ്പോൾ നമുക്ക് ഇവിടേക്ക് തിരിച്ചു പോകാം നമ്മൾ കൂടുതൽ ലളിതവൽക്കരണം നടത്തി ഉം ഉം തിരഞ്ഞെടുത്തെന്ന് കരുതുക അതിനാൽ ഇത് ഒരുമിച്ച് ആണെന്നും ആണെന്നും സൂചിപ്പിക്കുന്നു ഇപ്പോൾ പക്ഷേ ഇപ്പോൾ ഞാൻ നെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അവസാനം അവശേഷിക്കുന്നത് പ്രതിഫലന ഗുണകം കാണുക എന്നതാണ് അതിനാൽ നമുക്ക് ഇവിടെ പ്രതിഫലന ഗുണകം നോക്കാം ഈ പ്രതിഫലന ഗുണകം എങ്ങനെയിരിക്കും അതിനാൽ അവിടെയുണ്ട് അവിടെയുണ്ട് ആണ് അതിനാൽ അത് മറക്കുക അതിനാൽ നമുക്ക് അതിൻറെ അംശം നോക്കാം ഇപ്പോൾ എന്തായിരുന്നു ഇവിടെ ന് അതിന്റെ പദപ്രയോഗം ഉണ്ട് അതിനാൽ നമുക്ക് അത് ഇവിടെ എഴുതാം

എന്നത് തിരഞ്ഞെടുക്കുന്നതിലൂടെ കോണുകൾ തുല്യമാക്കാൻ എനിക്ക് കഴിയും അതിനാൽ ഇപ്പോൾ ഈ പദപ്രയോഗത്തിൽ ഏതൊക്കെയാണ് പൊതുവായി വരുന്നത് അതിനാൽ ഇത് അങ്ങനെ ലഘൂകരിക്കുന്നു അതിനാൽ നമുക്ക് ഇങ്ങനെ എഴുതാം ആയതിനാൽ അത് എന്താണ് ഞാൻ ഒരു പ്രത്യേക കോൺ വ്യക്തമാക്കേണ്ടതുണ്ടോ ഈ പ്രതിഫലനം എല്ലാ കോണിലും 0 ആണെന്ന് ഉറപ്പുവരുത്താൻ എനിക്ക് കഴിഞ്ഞു ഇതിലെവിടെയാണ് സൂത്രം എന്തെന്നാൽ ഞാൻ ഒരുവിധം എല്ലാം തുല്യമാക്കി എന്നീ ഘടകങ്ങളെല്ലാം ഇവിടെ നിന്ന് ഒഴിവാക്കാൻ ഇത് എന്നെ സഹായിക്കുന്നു എന്നാൽ മാധ്യമം 1 മാധ്യമം 2 ൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഞാൻ ഇവിടെ ഇവയെപോലും ഉറപ്പിച്ചു അപ്പോൾ സ്വതന്ത്ര നോബ് എവിടെയാണ് എല്ലാം തുല്യമാണെങ്കിൽ z ഭാഗത്ത് ഇന്റർഫേസ് ഇല്ല മാത്രമല്ല ഞാൻ z ഭാഗത്തെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് ലഭിച്ചു അതിനാൽ അവ ഏത് മൂല്യത്തിലായാലും ഒഴിവാക്കപ്പെടും അതിനാൽ ഇത് TM ന്റെ കാര്യത്തിലായിരുന്നു TE യുടെ പദപ്രയോഗം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അതേ രീതിയിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാനാകും അതിനാൽ ഇതിൽ TM TE ധ്രുവീകരണത്തിനായുള്ള പ്രതിഫലന ഗുണകം 0 ന് തുല്യമാണ് അതിനാൽ ഏതെങ്കിലും പതന കോണിലെ ധ്രുവീകരണം സ്വതന്ത്രമായ പ്രതിഫലന ഗുണകമാണോ എനിക്ക് എങ്ങനെയാണ് ആ പതന കോൺ ലഭിച്ചത് ഘടകങ്ങളെ സ്ട്രെച്ചിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് തിരഞ്ഞെടുക്കാം അതിനാൽ ഘടകങ്ങളെ സ്ട്രെച്ചിംഗ് രീതിയിൽ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ എന്ന് നമുക്ക് എഴുതാം അപ്പോൾ എന്നുംഎന്നും നമുക്ക് എഴുതാം അതിനാൽ എല്ലാം 1 ആയിരിക്കണം കാരണം ഞാൻ ഒരു ഭൌതിക മാധ്യമത്തിൻറെ മാതൃക ചെയ്യാൻ ശ്രമിക്കുന്നു ഇത് എന്റെ കമ്പ്യൂട്ടേഷണൽ ഡൊമെയ്നിന്റെ ഉൾഭാഗം ആണ് ഞാൻ പ്രദേശം 2 ൽ വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ തമാശ കിടക്കുന്നത് അതിനാൽ തികച്ചും പൊരുത്തമുള്ള പാളി L എന്ന് വിളിക്കുന്നത് ഇതിനെയാണ് ഇപ്പോൾ എനിക്ക് തിരഞ്ഞെടുക്കാൻ എന്താണുള്ളത് അപ്പോൾ ആകുന്നു അതിനാൽ ഇത് ചെയ്തുകൊണ്ട് ഞാൻ രണ്ട് ധ്രുവീകരണങ്ങൾക്കും രണ്ട് പതനകോണുകൾക്കുമായി 0 പ്രതിഫലനങ്ങളുള്ള ഒരു ഇന്റർഫേസ് സൃഷ്ടിച്ചു അത് ഒരുമാന്ത്രികത പോലെയാണ് അത് ശരിയാണോ അതിനാൽ ചോദ്യം എന്തെന്നാൽ എന്നാൽ ഈ ഘടകങ്ങൾ നമ്മൾ മുൻപു ചെയ്ത സിമുലേഷനിൽ എവിടേക്കാണ് പോകുന്നത് അതിനാൽ നിർവ്വഹണ വിശദാംശങ്ങളെക്കുറിച്ച് നമ്മൾ മറ്റൊരു ചർച്ച നടത്തും അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നാൽ ഉയർന്ന തലത്തിൽ അപ്ഡേറ്റ് സമവാക്യങ്ങൾ പരിഷ്ക്കരിക്കേണ്ടതാണ് കാരണം ഞാൻ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ പരിഷ്ക്കരിച്ചിട്ടുണ്ട് ഞാൻ അപ്ഡേറ്റ് സമവാക്യങ്ങൾ പരിഷ്ക്കരിക്കുമ്പോൾ ഈ ഘടകങ്ങൾ സിമുലേഷനിൽ പ്രവേശിക്കുന്നു എന്നാൽ ഭൌതികമായി എന്താണ് സംഭവിച്ചത് ഭൌതികമായി ഞാൻ യഥാർത്ഥത്തിൽ ഒരുതരം അനിസോട്രോപിക് മാധ്യമം സൃഷ്ടിച്ചു അത് ഈ മാന്ത്രികത കൈവരിക്കുന്നു അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് വിദ്യാർത്ഥി മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളുടെ ആദ്യത്തെ ഭാഗങ്ങൾ എവിടെയോ വിദ്യാർത്ഥി ആ വകഭേദം നമ്മൾ 1 അകത്തും പുറത്തുമായി കണ്ടതാണോ പുറത്ത് അതെ കൃത്യമായും അതെ അതിനാൽ ഇതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഇതുവരെ എന്താണെന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല അതിനാൽ ഇത് നമ്മുടെ കൈകളിൽ ഉള്ള നിങ്ങൾക്ക് അറിയാവുന്ന ഒന്നാണ് അതിനാൽ ഈ PML സിദ്ധാന്തം നമുക്ക് ഇവിടെ സംഗ്രഹിക്കാം ഈ ഘടകം ഇവിടെ എവിടെയാണ് ദൃശ്യമാകുന്നത് അത് ഇതാണ് ശരിയല്ലേ അതിനാൽ ഞാൻ ഇവിടെ എഴുതുമ്പോൾ നമ്മുടെ കൈയിലാണ് നമുക്ക് ഇതിനെ z അക്ഷം എന്ന് വിളിക്കാം ഇപ്പോൾ ഒരു സഞ്ചരിക്കുന്ന തരംഗം സിമുലേഷൻ ഡൊമെയ്നിൽ നിന്ന് ഇവിടേക്ക് വന്നു ഒരു തരംഗം ഇതുപോലെ സഞ്ചരിച്ചാൽ നമ്മൾ കണ്ടതുപോലെ പ്രതിഫലനം ഉണ്ടാവുകയില്ല അതിനാൽ ആ തരംഗം എവിടെയെങ്കിലും പോകേണ്ടതുണ്ട് അതിനാൽ അത് ഇപ്പോൾ അതിന്റെ PML പാളിയിൽ സഞ്ചരിക്കുന്നു z ദിശയിലുള്ള അതിന്റെ പ്രചാരണ സ്ഥിരാങ്കം ഇവിടെയുണ്ട് ഇതിന് എനിക്ക് എന്താണ് വേണ്ടത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ പരിചയപ്പെടുത്തിയ ഈ PML പാളി പോലും ഒരു പരിമിതമായ പാളിയായിരിക്കണം അതിനാൽ ഞാൻ അത് എവിടെയെങ്കിലും നിർത്തണം അതിനാൽ ഞാൻ എങ്ങനെയാണ് ഇത് അർത്ഥമാക്കുന്നത് ഞാൻ എങ്ങനെ തിരഞ്ഞെടുക്കണം വിദ്യാർത്ഥി അത്തരം ക്ഷയിക്കുന്ന അത് ക്ഷയിക്കുന്ന രീതിയിൽ അതിനർത്ഥം ഇല്ല അതായത് എന്നത് 0 ന് തുല്യം ആയിരിക്കരുത് എന്നാണ് വിദ്യാർത്ഥിഎടുക്കൂ മിശ്ര സംഖ്യയാവണം കാരണം ഞാൻ എങ്ങനെയാണ് ഇവിടെ തരംഗ വെക്റ്റർ എഴുതുക അങ്ങനെയാണ് എനിക്ക് മറ്റ് പദങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് ഇപ്പോൾ ഞാൻ ഇതിനെ മിശ്ര സംഖ്യ ആകുകയാണെങ്കിൽ അതായത് ഞാൻ ഇതിനെ എന്നാക്കുകയാണെങ്കിൽ അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അതായത് തരംഗം പ്ലസ് z ദിശയിൽ ഇവിടേക്ക് സഞ്ചരിക്കുമ്പോൾ അത് ക്ഷയിക്കുന്നു അതിനാൽ എന്താണ് സംഭവിച്ചത് അത് z 0 ൽ അകത്ത് പ്രവേശിക്കുന്നു z 0 ൽ ഇന്റർഫേസ് ആണ് z വർദ്ധിക്കുമ്പോൾ അതിന്റെ മൂല്യം കുറയുന്നു അതിനാൽ ഞാനിതിനെ ഒരു z ൻറെ ഫംഗ്ഷൻ ആക്കി വരയ്ക്കുകയാണെങ്കിൽ PML യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്നാൽ ഇത് z 0 ആണെന്ന് നമുക്ക് പറയാം ഇത് തരംഗത്തിന്റെ വ്യാപ്തി പോലെയാണ് അകത്തേക്ക് പ്രവേശിക്കുന്തോറും അത് ക്ഷയിക്കാൻ തുടങ്ങുന്നു വിദ്യാർത്ഥി ക്ഷയിക്കുന്നു ഇത് എന്റെ PML ആണ് അത് ക്ഷയിച്ചു അതിനാൽ പ്രതിഫലനം ഉണ്ടായിരിക്കുകയില്ല അതിനാൽ R 0 ആയിരിക്കും എന്നാൽ നിങ്ങൾക്ക് എന്താണ് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ കൈയിലുള്ള ഈ PML പാളിയുടെ വീതി അകത്ത് തരംഗം ക്ഷയിക്കുന്ന രീതിയിൽ കൂടുതൽ വലുതായിരിക്കണം എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇത്രയധികം റാം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിൽ നിങ്ങൾക്ക് ഒരു നേർത്ത പാളി മാത്രമേ പരിഹരിക്കാൻ കഴിയൂ അതിനാൽ എന്ത് സംഭവിക്കാം എന്നത് നമുക്ക് ഇവിടെ ചുരുക്കി വീണ്ടും വരയ്ക്കാം അതിനാൽ അത് ഇവിടെ വന്നു അത് ക്ഷയിച്ചു പിന്നെ എന്താണ് അതിനാൽ z 0 ആദ്യം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു അതിർത്തി വ്യവസ്ഥ പ്രയോഗിക്കേണ്ടതുണ്ട് അല്ലാത്തപക്ഷം ഞാൻ തരംഗം എങ്ങനെ അവസാനിപ്പിക്കും അതിനാൽ എനിക്ക് എന്ത് അതിർത്തി വ്യവസ്ഥ ചെയ്യാൻ കഴിയും വിദ്യാർത്ഥി റോബിൻ അതിർത്തി വ്യവസ്ഥ റോബിൻ ബൌണ്ടറി അവസ്ഥ നിങ്ങൾ എന്താണ് പറഞ്ഞത് അതെ നമ്മുടെ സാധാരണ ABC ആഗിരണം ചെയ്ത ആദ്യ ഓർഡർ ABC എനിക്ക് ഇത് ഇവിടെ പ്രയോഗിക്കാൻ കഴിയും ഇത് പരിണാമ തരംഗങ്ങളിൽ പ്രവർത്തിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ അത് ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നു അതിനാൽ ഒന്നുകിൽ എനിക്ക് ഇവിടെ ഒരു ABC പ്രയോഗിക്കാൻ കഴിയും കാരണം എനിക്ക് ചിലത് വ്യക്തമാക്കേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ ചില പ്രതിഫലനങ്ങൾ ഉണ്ടാകും ഈ പ്രതിഫലനം കാരണം തരംഗം കൂടുതൽ ക്ഷയിക്കും കൂടെ വിദ്യാർത്ഥി വികിരണം ചെയ്യുന്ന അതിർത്തി വികിരണം ചെയ്യുന്ന അതിർത്തി വ്യവസ്ഥ ഈ പ്രത്യേക ഡെറിവേറ്റീവ് സമതല തരംഗമായി മാറ്റിസ്ഥാപിക്കുന്നു FEM ൻറെ കാര്യത്തിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് അത് തന്നെ നമ്മൾ FDTD യുടെ കാര്യത്തിൽ ഉപയോഗിക്കുന്നു അതിനാൽ ഇവിടെ അത് ക്ഷയിക്കുന്നു ഈ പാളി വളരെ നേർത്തതാണെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും പാളിയുടെ കനം നേർത്തതാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് കമ്പ്യൂട്ടേഷണൽ ഡൊമൈനിൽ വരുന്ന ഒരു തരംഗമുണ്ടാകാം അതിനാൽ ഞാൻ ഒരു PML നന്നായി കോഡ് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് PML ൽ നിന്ന് ഇപ്പോഴും ഒരു തരംഗം വരുന്നുണ്ടെന്ന് കണ്ടെത്തിയാൽ എന്റെ കോഡിംഗ് തെറ്റ് ആകണമെന്നില്ല പാളിയുടെ കനം വളരെ നേർത്ത രീതിയിലുള്ളത് ആയിരിക്കാം കാരണം അതായിരിക്കാം PML ന്റെ പുറകിൽ നിന്ന് എനിക്ക് ഒരു പ്രതിഫലനം ലഭിക്കുന്നത് അതിനാൽ പാളിയുടെ കനം അനുസരിച്ച് രണ്ട് സാഹചര്യങ്ങളും സംഭവിക്കാം ഞാൻ ഈ ഘടകം ശരിയാക്കുന്നത് അതിനനുസരിച്ചാണ് അതിനാൽ ഇവയെ ഞാൻ എങ്ങനെ j q പദമായി സജ്ജമാക്കാം എന്നതിലേക്ക് ധാരാളം രൂപകൽപ്പനകൾ ലഭ്യമാണ് അതിനാൽ ഇതിനായി നമ്മൾ FDTD യുടെ ഒരു ആശ്രയവും സ്വീകരിച്ചിട്ടില്ല നിങ്ങൾ p വളരെ കൂടുതൽ ആക്കിയാൽ വിദ്യാർത്ഥി q ക്ഷമിക്കണം q എന്നത് വലുതാകേണ്ടതാണ് അല്ലേ നഷ്ടപ്പെട്ട ഭാഗം p ആയിരിക്കില്ല അതെ അതിനാൽ ചോദ്യം അതെ അതിനാൽ സൈദ്ധാന്തികമായി ഞാൻ q വളരെ വലുതാക്കുകയാണെങ്കിൽ അത് വളരെ കുത്തനെ ക്ഷയിക്കും പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ചില സംഖ്യാപരമായ പ്രശ്നങ്ങളുണ്ട് തികഞ്ഞ ലോകത്ത് ഇത് വളരെ ശരിയാണ് പക്ഷേ ഞാൻ ഇത് സംഖ്യാപരമായി നടപ്പിലാക്കുന്ന നിമിഷത്തിൽപ്പോലും ഈ പെട്ടെന്നുള്ള മാറ്റം ഒരിക്കലും പ്രവർത്തിക്കില്ല അതിനാൽ വാസ്തവത്തിൽ മിക്ക ആളുകളും അവർ ചെയ്യുന്നത് q പോലും ഒരു അഡിയാബാറ്റിക് തരംഗത്തിലാണ് അവതരിപ്പിക്കുന്നത് അതിനാൽ ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങൾ സൈദ്ധാന്തികമായി കോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും എന്നാണ് എനിക്ക് ഇത് കുറച്ച് ഗ്രാഫുകളിൽ കാണിക്കാൻ കഴിയും പക്ഷേ ഇത് അത്ര രസകരമല്ല അതിനാൽ PML സിദ്ധാന്തത്തിന്റെ ആശയം അത്തരത്തിലുള്ള ഒരു സമീപനത്തിലേക്ക് കൊണ്ടുവരുന്നു തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് 2 തരത്തിൽ ചെയ്യാമായിരുന്നു അതിലൊന്ന് ഊർജ്ജതന്ത്രത്തിൽ ഉള്ള തത്വങ്ങൾ എല്ലാം നിലകൊള്ളുന്ന രണ്ടുതരത്തിലുള്ള വസ്തുക്കൾ ഉള്ളതാണ് അതിൽ ഒന്നാമതായി സാധാരണയും രണ്ടാമത് അനീസോട്രോപിക് വസ്തുക്കളുമാണ് അത് നിങ്ങൾക്ക് അതേ ഫലം തരുന്നു കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് ഉപയോഗിച്ചായിരുന്നു നമ്മുടെ സമീപനം കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് ഒരു ആനിസോട്രോപിക് അബ്സോർബർ ആയി വ്യാഖ്യാനിക്കപ്പെടുന്നു കേവലം 1 ഘടകം ഉപയോഗിച്ച് കളിക്കുന്നതിലൂടെയും വളരെ മനോഹരമായ ഫലം ലഭിക്കുന്നതായും പ്രതിഫലനമില്ലെന്നും ഏത് കോണിലും ധ്രുവീകരണമുണ്ടെന്നും നമ്മൾ കണ്ടെത്തി അതിനാൽ ഈ സമീപനത്തിന്റെ ഈ പ്രത്യേകത കാരണം അത് FEM FDTD എന്നിവയിൽ നിലവാരമുള്ളതായിത്തീർന്നു അതിനാൽ PML ന്റെ തത്ത്വചിന്തകൾ സ്ട്രെച്ചിംഗ് കോർഡിനേറ്റുകൾ ഉപയോഗിച്ച് വിശദീകരിക്കുന്നതിനുള്ള പ്രധാന ലേഖനം ആണ് ഈ 94 ാമത്തെ വെംഗ് ചോ ച്യൂവിന്റെ ലേഖനം അതിനാൽ നമ്മൾ ചെയ്തതെന്തും അടിസ്ഥാനമാക്കി അതിന്റെ വളരെ വായിക്കാവുന്ന രൂപത്തിൽ ആണ് അതുള്ളത് നിങ്ങൾക്ക് ഒറ്റ തവണയിൽ ഈ ലേഖനം വായിക്കാൻ കഴിയും അതിനാൽ തുടർന്നുള്ള മൊഡ്യൂളുകളിൽ നമ്മൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നടപ്പാക്കുന്നത് എന്ന് നോക്കാം പക്ഷേ ബുദ്ധിമുട്ടുള്ള ഭാഗം അവസാനിച്ചു തീർച്ചയായും നമുക്ക്